മുമ്പ് നമ്മൾ കണ്ടത് ഒരു സാധാരണ ഉദാഹരണം മാത്രമാണ് ഒറ്റ നോട്ടത്തിൽ ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിയായി മനസിലാക്കേണ്ട ഒരു കോഴ്സാണ് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്ന് ചില സംഖ്യകൾ പരിഹരിക്കുമ്പോൾ അവയാണെന്ന് ഉത്തരം നൽകാൻ നിങ്ങൾ ശ്രമിക്കും അതിനാൽ ഞാൻ കഴിയുന്നിടത്തോളം ഉദ്ദേശിക്കുന്നത്രയും പ്രശ്നങ്ങൾക്ക് മുമ്പായി സംയോജിപ്പിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു ഒപ്പം മനസ്സിലാക്കുന്നതെല്ലാം വ്യക്തമാണോ അല്ലയോ എന്ന് നാം കാണേണ്ടതുണ്ട് ഉദാഹരണത്തിന് സർക്യൂട്ടിലെ സ്വിച്ച് വളരെക്കാലം ആയി അടച്ചിരിക്കുന്നതായി കാണിക്കുന്നു അത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ആയി തീരും അതിനുള്ള പ്രാരംഭ അവസ്ഥ കണ്ടെത്തണമെങ്കിൽ ഇത് t 0 ൽ vt കണ്ടെത്തണം കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം കണക്കാക്കണം സ്വിച്ച് ഈ സർക്യൂട്ടിൽ വളരെക്കാലം അടച്ചിരുന്നു സ്വിച്ച് ദീർഘനേരം അടച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിച്ച് വളരെക്കാലം അടച്ചിരുന്നുവെന്നും t 0 എന്ന കോൾ എന്താണെന്നും വിളിച്ചാൽ സ്വിച്ച് തുറന്നിരിക്കുന്നു സ്വിച്ച് ദീർഘനേരം അടച്ചിരുന്നുവെങ്കിൽ DC വിതരണത്തിനായുള്ള കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെയാകുമെന്ന് അറിയുക അതിനാൽ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും ഈ രണ്ട് ടെർമിനലും ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ എന്ത് സംഭവിക്കും എന്നതിനർത്ഥം അത് അവിടെ ഇല്ലെന്നും 10 Ω പ്രതിരോധത്തിൽ ഒന്നും ഒഴുകുന്നില്ലെന്നും ഒടുവിൽ ഒരു വൈദ്യുതധാര ഇതിലൂടെ മാത്രമേ ഒഴുകുകയുള്ളൂ എന്നാണ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതിനർത്ഥം കപ്പാസിറ്ററിലുടനീളം ഇത് വോൾട്ടേജ് v പറയുന്നു ഈ 20 മില്ലിഫാരഡ് ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഈ 30 കണ്ടെത്തുമ്പോൾ ഇത് എന്ത് സംഭവിക്കും ഇത് 80 ആണ് ഇത് 90 ആണ് കറന്റ് i 2030 90 ആയിരിക്കും അതിനാൽ ഇത് 20 വോൾട്ട് ആണ് അതായത് 2012016 ആമ്പിയർ അതാണ് കറന്റ് പിന്നെ എന്താണ് വോൾട്ടേജ് ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതിനാൽ ഇതിലൂടെ വൈദ്യുതപ്രവാഹം ഇല്ല ഇത് അടച്ചപ്പോൾ ഇത് കാരണം t സ്വിച്ച് തുറന്നതും അതിനുമുമ്പ് t 0 അടച്ചതുമാണ് അതിനാൽ ഈ കറന്റ് ഒഴുകുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്ന വോൾട്ടേജ് 90 ആയിരിക്കും കാരണം ഇത് ഇവിടെ പ്രവഹിക്കുന്നില്ല ഓപ്പൺ സർക്യൂട്ടും 90 16 15 വോൾട്ടും അതിനർത്ഥം സ്വിച്ച് വളരെക്കാലം അടച്ചപ്പോൾ ആ സമയത്ത് ഇവിടെ വോൾട്ടേജ് ഈ കപ്പാസിറ്ററിലുടനീളം വെറും 15 വോൾട്ട് മാത്രമാണ് ഇത് പ്രാരംഭ വ്യവസ്ഥയാണ് അതിനാലാണ് ഇത് എഴുതുന്നത് 0 അതിനാൽ കറന്റ് i 20 ഇത് തുറന്നിരിക്കുന്നു ഇത് 10 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്നില്ല കാരണം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ ഈ 16 ആമ്പിയറിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയാണ് i v C0 90 16 ആയിരിക്കും അതിനാൽ ഇത് 15 വോൾട്ട് ആണ് ഇപ്പോൾ t 0 ആയിരിക്കുമ്പോൾ സ്വിച്ച് തുറക്കുകയും തുല്യമായ സർക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ സ്വിച്ച് തുറക്കുമ്പോൾ t0 ആയിരിക്കുമ്പോൾ ഈ ഭാഗം ഇല്ലാതാകുകയും സ്വിച്ച് തുറക്കുമ്പോൾ t 0 ആയിരിക്കുമ്പോൾ ഈ ഭാഗം ഇല്ലാതായി ഈ സാഹചര്യത്തിൽ ഇത് തുല്യമായ സർക്യൂട്ട് ആണ് ഇതാണ് x 10 Ω 90 എന്നിവ 20 മില്ലിഫാരഡും പ്രാരംഭ കപ്പാസിറ്റർ v C0 15 വോൾട്ടുകളിൽ ചാർജ്ജ് ചെയ്യപ്പെട്ടു അതിനാൽ 40 ആണെങ്കിൽ R eq തത്തുല്യമായത് 10 90 അതിനാൽ 100 ആയിരിക്കും ടൈം കോൺസ്റ്റന്റ് C R eq ആണ് അത് R eq C ആണ് അതിനാൽ R eq 100 Ω C 20 മില്ലിഫരാഡ് അതിനാൽ 20 10 പവർ 3 ഫറാഡ് അതിനാൽ ഇത് രണ്ടാമതാണ് അതിനാൽ 2 സെക്കൻഡ് τ 2 സെക്കൻഡ് T എന്നതിനുള്ള കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ 0 ന് തുല്യമായ ഇത് നമുക്കറിയാം v t V0 e t τ അതിനാൽ നമുക്ക് ലഭിച്ച V0 V C0 15 വോൾട്ട് അതിനാൽ ഇത് 15 ഉം τ 2 സെക്കന്റുമാണെന്ന് V0 v C0 15 വോൾട്ട് അതിനാൽ ഇത് t t ആണ് അതിനാൽ e പവർ 0 5 t ωτ C0 എന്നിവയാണ് തുടക്കത്തിൽ കപ്പാസിറ്റർ പകുതി C V0 സ്ക്വയറിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം അതിനാൽ പകുതി സി പവറിന് 20 10 ആണ് 3 ഫറാഡും വി 0 സ്ക്വയറും അതിനാൽ 15 ചതുരശ്ര 2 25 വോൾട്ട് അതിനാൽ അടുത്തത് സോഴ്സ് ഫ്രീ RL സർക്യൂട്ട് ആണ് അതിനാൽ അത് ഇൻഡക്റ്റർ പോലെ തന്നെ തുടരും അതിനാൽ അത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ കാണണം ഈ ചിത്രം 12 ഒരു റെസിസ്റ്ററിന്റെയും ഇൻഡക്ടറിന്റെയും സീരീസ് കണക്ഷൻ കാണിക്കുന്നു സ്വാഭാവിക പ്രതികരണമായ സർക്യൂട്ട് പ്രതികരണം നേടുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം കാരണം ഇത് ഒരു സോഴ്സ് ഫ്രീ സർക്യൂട്ടാണ് ഇത് ഇൻഡക്റ്ററിലൂടെ നിലവിലുള്ള i t ആണെന്ന് അനുമാനിക്കും ഇതാണ് ലളിതമായ സർക്യൂട്ട് ഇത് ഇൻഡക്റ്ററാണ് ഇത് റെസിസ്റ്ററാണ് ഇതാണ് കറന്റ് i ഇത് ഇവിടെ കറന്റ് എടുക്കുന്നു ഇവിടെയും ഇത് ഞാൻ അർത്ഥമാക്കുന്നത് കറന്റ് കറന്റ് ഇതുപോലെ നീങ്ങുന്നു അതിനാൽ ആ നിഷ്ക്രിയ ചിഹ്ന കൺവെൻഷൻ ഉപയോഗിച്ചു ഞങ്ങൾ എടുത്തതെന്തും vR എന്ന് വിളിക്കുന്നു അതിനാൽ ഇതൊരു സോഴ്സ് ഫ്രീ RL സർക്യൂട്ട് ആണ് ഇപ്പോൾ നമ്മൾ ഈ ലൂപ്പിൽ KVL പ്രയോഗിക്കുകയാണെങ്കിൽ അത് vR vL 0 ആയിരിക്കും t 0 സമയത്ത് ഇൻഡക്റ്ററിലെ പ്രാരംഭ കറന്റ് I0 ആയിരിക്കും ഇത് എല്ലായ്പ്പോഴും നമ്മൾ എഴുതുന്നില്ല പക്ഷേ ഈ കറന്റ് യഥാർത്ഥത്തിൽ തന്നെയാണ് ഇനിഷ്യൽ കറന്റ് I0 ആണെന്ന് കരുതുന്നു അതിനാൽ ഇൻഡക്റ്ററിന് ഇതുപോലുള്ള ഒരു പ്രാരംഭ കറന്റ് ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്ന പ്രാരംഭ വ്യവസ്ഥയാണിത് ഇൻഡക്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഇനിഷ്യൽ എനർജി W 0 12 LI02 എന്ന് എഴുതാം സമവാക്യ സംഖ്യകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ലൂപ്പിനൊപ്പം KVL പ്രയോഗിച്ചാൽ നമ്മൾക്ക് vL vR 0 ലഭിക്കും ഇനിഷ്യൽ കറന്റ് I0 ൽ നിന്ന് ചില സമയങ്ങളിൽ t i t വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ di i it 0 മുതൽ t t R L dt വരെ ആണ് അതിനാൽ ഇത് t 0 ആണ് പ്രാരംഭ കറന്റ് I0 ആയിരുന്നു കൂടാതെ ഈ വശത്തെ 0 മുതൽ t വരെ R L dt ഇപ്പോൾ സംയോജിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് സമന്വയിപ്പിക്കുകയാണെങ്കിൽ അത് നാച്ചുറൽ ലോഗ് i t I0 ആയിരിക്കും അതിനാൽ ഇത് i t I0 R Lt ആയിരിക്കും അതിനർത്ഥം i t I0 e RtL ഇത് സമവാക്യം 6 23 ഇത് 6 ാം അധ്യായമാണ് അതിനാൽ ഇപ്പോൾ 23 എന്നത് RL സർക്യൂട്ടിന്റെ നാച്ചുറൽ പ്രതികരണമായിരുന്നു അതിനാൽ t 0 ആയിരിക്കുമ്പോൾ ഈ പ്രാരംഭ മൂല്യം I0 ആണ് അത് കുറേശ്ശേ ക്ഷയിക്കുകയും ചെയ്യുന്നു അതിനാൽ കറന്റ് I0 t τ ടൈം കോൺസ്റ്റന്റ് τ L R എന്ന് എഴുതാം അതിനാൽ RL സർക്യൂട്ട് ടൈം കോൺസ്റ്റന്റ് LR ആണെങ്കിൽ കപ്പാസിറ്ററിന് ഇത് RC ആണ് ഇതാണ് പ്ലോട്ട് അതിനാൽ i അതിനാൽ റെസിസ്റ്ററിലുടനീളമുള്ള വോൾട്ടേജ് vR t i R ഇപ്പോൾ റെസിസ്റ്ററിൽ വൈദ്യുതി വ്യാപിക്കുന്നത് p t ഏത് സമയത്തും t p t vR t i t ആണ് അതിനാൽ ഇത് V t I0 R e t τ ആണ് അതിനാൽ I0 R e t i i t I0 e പവർ t അതിനാൽ p t I02R e 2 t τ ഇത് സമവാക്യം 26 ആണ് ഇപ്പോൾ t W R t 0 മുതൽ t p dt വരെ സംയോജിപ്പിക്കുക അതിനാൽ 0 മുതൽ t വരെ ഇത് p യുടെ പദപ്രയോഗമാണ് 26 എന്ന സമവാക്യം ഇവിടെ ഇടുക ഞാൻ I0 ചതുരശ്ര R e പവറിലേക്ക് 2 t τ dt സമന്വയിപ്പിക്കുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലളിതമാക്കുകയും ചെയ്യുക

ഇത് സമവാക്യം 27 ആണ് അതിനാൽlim t ∞ പ്രവണത കാണിക്കുന്നു ωR∞ 12 LI02 ω 0 ω തുടക്കത്തിൽ കാണിച്ചു തുടക്കത്തിൽ സംഭരിച്ച 12LI02 വീണ്ടും ഇൻഡക്റ്ററിൽ സംഭരിച്ചിരിക്കുന്ന എനർജി ഒടുവിൽ റെസിസ്റ്ററിൽ വ്യാപിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇത് പ്രതീക്ഷിക്കുന്നു അതിനാൽ അടുത്തതായി നമുക്ക് 1 ഉദാഹരണം നോക്കാം ഈ ചിത്രത്തിൽ i t നിർണ്ണയിക്കേണ്ടതുണ്ട് കൂടാതെ I0 1 ആമ്പിയർ നൽകിയിട്ടുണ്ട് അതിനാൽ ഇതാണ് ഇവിടെ 1 സർക്യൂട്ട് 1 അല്ലെങ്കിൽ എന്ത് കോൾ 1 ആശ്രിത വോൾട്ടേജ് ഉറവിടം 3 i ടെർമിനൽ പോളാരിറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ആ പ്രാരംഭ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഇത് I ആണ് ഇത് ഞാൻ y ആണെന്ന് കണ്ടെത്തണം കൂടാതെ I0 1 ആമ്പിയർ നൽകിയിട്ടുണ്ട് അതിനാൽ ഈ കാര്യത്തിന് മുമ്പ് ഞാൻ ഇതുപോലെയാക്കിയാൽ മാത്രമേ ചെയ്യാൻ കഴിയൂ അതിനാൽ ഇത് ഇതാണ് ഒരു ലൂപ്പ് ഇത് മറ്റൊരു ലൂപ്പിന് എടുക്കാം ഈ കറന്റ് i1 ആണെങ്കിൽ ഈ കറന്റ് i2 ആണ് അതിനാൽ നമുക്ക് കെവിഎൽ പ്രയോഗിക്കണമെന്നും അതിനനുസരിച്ച് അത് പരിഹരിക്കേണ്ടതുണ്ടെന്നും ഓർക്കാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ എടുത്തത് മുമ്പത്തെ സർക്യൂട്ടിലെ ഒറിജിനൽ സർക്യൂട്ട് ഇത് എന്റെ i ആണെന്നും ഇത് യഥാർത്ഥത്തിൽ i y ആണെന്നും ഇത് നൽകിയിട്ടുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ലൂപ്പ് എടുത്ത രീതി i യഥാർത്ഥത്തിൽ i1 അല്ലെങ്കിൽ i1 i ആണ് 2 Ω റെസിസ്റ്റൻസ് ദിശയിലൂടെ ഒഴുകുന്ന i y കറന്റ് ഈ വഴിയാണ് അതിനാൽ i y ഈ ദിശയിൽ നമ്മൾ എടുക്കുന്നു അതിനാൽ i2 i1 കാരണം ഈ i2 ഈ i2 ഇതുപോലെ പോകുന്നു ഒപ്പം ഈ i1 ഇതുപോലെ പോകുന്നു അതിനാൽ ഫലമായി i2 i1 ആയിരിക്കും അതിനർത്ഥം എന്റെ i y അടിസ്ഥാനപരമായി i2 i1 i അതിനാൽ ഇത് i ആണ് ഇതിനർത്ഥം നോക്കുകയാണെങ്കിൽ ഇത് ആദ്യം പ്രയോഗത്തിൽ കെവിഎൽ പ്രയോഗിക്കുന്നു അതായത് i1 i i1 i2 i1 i2 i എന്നിവ നൽകിയിട്ടുള്ളത് അതിനാൽ ഇവിടെ ഈ ലൂപ്പിൽ കെവിഎൽ പ്രയോഗിക്കുക അതിനാൽ അങ്ങനെ ചെയ്താൽ 0 5 ലഭിക്കും അത് 0 5 ഹെൻറിയാണ് നൽകുന്നത് അതിനാൽ L l din 1 dt അതിനാൽ ഇത് 0 5 di1 dt ആണ് പിന്നെ നമ്മൾ നീങ്ങുന്നു നമ്മൾ ഇവിടെ ഘടികാരദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇത് 2 2 i1 ആയിരിക്കും i1 ഇതുപോലെ നീങ്ങുന്നു കാരണം i1 മുകളിലേക്കും i2 താഴേക്കും നീങ്ങുന്നു അതിനാൽ മുകളിലേക്ക് വരുന്നതിന്റെ ഫലം i1 i2 ആണ് അതിനാൽ 2 i1 i2 0 അല്ലെങ്കിൽ ഇരുവശവും 2 കൊണ്ട് ഗുണിച്ചാൽ di1 dt 4 i1 4 i2 0 ലഭിക്കും ഇത് നൽകിയ സമവാക്യം 3 ആണ് ഇപ്പോൾ സമാനമായി ലൂപ്പ് 2 ന് ലൂപ്പ് 2 എടുക്കുകയാണെങ്കിൽ അതിനെ ലൂപ്പ് 2 ആക്കുകയാണെങ്കിൽ അത് 4 i2 4 i2 2 i2 i2 i1 2 i2 i1 3 i 0 ആയിരിക്കും കാരണം ഇത് ആശ്രിത വോൾട്ടേജ് ഉറവിടം 3 i ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അത് അടിസ്ഥാനപരമായി 6 i2 2 i1 3 i 0 ഇത് 1 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ലൂപ്പ് 2 ന് ഇത് 6 i2 2 i1 3 i 0 ഇത് സമവാക്യം 4 ആണ് ഇപ്പോൾ ഞാൻ i1 ആയതിനാൽ ഇവിടെ 6 i2 2 i1 3 i1 0 അതായത് i2 56 i1 ഇപ്പോൾ സമവാക്യം 3 സമവാക്യം 5 എന്നിവയിൽ നിന്ന് സമവാക്യം 3 യഥാർത്ഥത്തിൽ ഈ പദപ്രയോഗം ഇടുക i2 56 i1 അപ്പോൾ di1 dt 23 i1 0 ലഭിക്കും അതിനാൽ ഇത് സമവാക്യം 6 a അതിനാൽ ഇപ്പോൾ നമുക്കറിയാം i1 i അതിനാൽ di dt 23 i അല്ലെങ്കിൽ di I രണ്ട് മൂന്നാമത്തെ dt ഇപ്പോൾ t 0 കറന്റിൽ ഇരുവശത്തും സംയോജിപ്പിക്കുക I0 ഉം t time t കറന്റിൽ അത് di i 23 ഇന്റഗ്രേഷൻ 0 മുതൽ t dt വരെ ആയിരുന്നു അല്ലെങ്കിൽ ഇത് ലളിതമായി പ്രയോഗിച്ചാൽ ഏകീകരണം ലഭിക്കും I0 e പവർ 2 t 3 അത് t 0 എന്നതിനാണ് നമ്മൾ മുമ്പ് ഇത്തരത്തിലുള്ള സംയോജനം കണ്ടു ഇപ്പോൾ തുടക്കത്തിൽ I0 1 ആമ്പിയർ നൽകിയിരുന്നതിനാൽ അത് e പവറിന് 2 t 3 കാരണം I0 പ്രാരംഭ മൂല്യം 1 ആമ്പിയർ നൽകിയിട്ടുണ്ട് അതിനാൽ ഇവിടെ ഇടുക I0 1 അതിനാൽ അത് e പവർ 2 t 3 ആയിരിക്കും ഇപ്പോൾ ഇൻഡക്ടറിലുടനീളം വോൾട്ടേജ് v L di dt L 0 5 ഹെൻറിയാണ് കൂടാതെ അത് വൈദ്യുതധാരയുടെ വ്യുൽപ്പന്നം എടുക്കുക di t dt അങ്ങനെ ചെയ്താൽ അത് വൈദ്യുതിക്ക് 0 5 23 e 2 t 3 ആയിരിക്കും അതിനാൽ V 1 മൂന്നാമത്തെ e 2t3 വോൾട്ട് ഇൻഡക്ടറും 2 Ω റെസിസ്റ്ററും സമാന്തരമായതിനാൽ അതിനാൽ നമുക്ക് ലഭിച്ച V എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ഇൻഡക്ടറിലുടനീളമുള്ള ഈ വോൾട്ടേജ് v ആണ് അതിനാൽ ഈ 2 സമാന്തര 2 Ω പ്രതിരോധത്തിലും 0 5 ഇൻഡക്റ്റർ രണ്ടും സമാന്തരവുമാണ് ഈ വോൾട്ടേജ് v എന്ന് പറയുന്നു അതായത് R i y ഒരു 2 Ω റെസിസ്റ്ററിലുടനീളം ഇതേ വോൾട്ടേജായിരിക്കും അതിനാൽ ഇത് V 2 Ω പ്രതിരോധമാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കറന്റ് i y v 2 ആണ് കാരണം ഈ 2 Ω പ്രതിരോധം ഇവിടെയുണ്ട് ഇവിടെ 2 y റെസിസ്റ്റൻസാണ് i y time t v 2 അതിനാൽ അതാണ് 2 Ω പ്രതിരോധത്തിലേക്ക് ഒഴുകുന്നത് അത് i y t ആണ് അതിനാൽ ഈ പദപ്രയോഗം v 13 ആണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുതുന്നില്ലെങ്കിൽ എന്നാൽ ഈ പദപ്രയോഗം യഥാർത്ഥത്തിൽ t യുടെ എല്ലാ പ്രവർത്തനങ്ങളും ആണ് അതിനാൽ എല്ലായ്പ്പോഴും എഴുതുന്നില്ല അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനാൽ ഞാൻ അത് മായ്ക്കട്ടെ അതിനർത്ഥം ഈ സാഹചര്യത്തിൽ ഇത് 16 e പവറിന് 2 t 3 വോൾട്ട് ആയിരിക്കും അതിനാൽ ഇൻഡക്റ്റർ കറന്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക ഇത് പ്രധാനമാണ് ഇത് മനസ്സിൽ സൂക്ഷിക്കണം ഇൻഡക്റ്റർ കറന്റിന് തൽക്ഷണം മാറാൻ കഴിയില്ല എന്ന ആശയം പ്രയോജനപ്പെടുത്തുന്നതിന് പ്രതികരണമായി ഇൻഡക്റ്റർ കറന്റ് തിരഞ്ഞെടുക്കുക സ്വിച്ച് തുറക്കുമ്പോഴോ അടയ്ക്കുമ്പോഴോ t 0 അല്ലെങ്കിൽ t 0 എന്ന് കാണും പക്ഷേ ഇൻഡക്റ്റർ കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ല എന്ന ആശയം പ്രയോജനപ്പെടുത്തുന്നതിനായി പ്രതികരണമായി വിളിക്കുന്ന ഇൻഡക്റ്റർ കറന്റ് അതിനാൽ ഇത് 1 ആണ് മറ്റൊന്ന് മറ്റൊരു ഉദാഹരണം ചിത്രം 16 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലെ സ്വിച്ച് അത് തുറക്കുന്നതിന് മുമ്പ് വളരെക്കാലം അടച്ചിരിക്കുന്നതായി ഞാൻ കാണിക്കും t 0 I L tit ഉം vt ഉം നിർണ്ണയിക്കുക a i L tb ആണ് സി ഈ 3 കാര്യങ്ങൾ 1 റെസിസ്റ്ററിൽ അലിഞ്ഞുചേരുന്ന 0 2 ഹെൻറി ഇൻഡക്ടറിൽ സംഭരിച്ചിരിക്കുന്ന മൊത്തം എനെർജിയുടെ നാലാമത്തെ ശതമാനം കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ സർക്യൂട്ട് t 0 ൽ തുറക്കുന്നതിന് മുമ്പ് കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലെ സ്വിച്ച് വളരെക്കാലമായി അടച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് സർക്യൂട്ട് യഥാർത്ഥത്തിൽ തുടക്കത്തിൽ ഇത് വളരെക്കാലം അടച്ചിരുന്നു അതായത് ഈ സർക്യൂട്ട് തുടക്കത്തിൽ വളരെക്കാലം അടച്ചിരുന്നു ഒപ്പം t 0 ന് അത് തുറന്നിരുന്നു അതിനാൽ തുടക്കത്തിൽ സർക്യൂട്ട് വളരെക്കാലം അടച്ചിരുന്നതിനാൽ ആ സമയത്ത് ഇൻഡക്റ്റർ എങ്ങനെ പ്രവർത്തിക്കും അതിനാൽ കപ്പാസിറ്റർ ഒരു ഓപ്പൺ സർക്യൂട്ടായി പ്രവർത്തിക്കുന്നുവെന്നും ഇൻഡക്റ്ററിന് ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുമെന്നും DC ക്ക് വേണ്ടിയും കണ്ടു അതിനാൽ ഈ സ്വിച്ച് ദീർഘനേരം അടച്ചെങ്കിൽ കാണുക എന്താണ് തുല്യമായ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് അത് എങ്ങനെയെന്ന് കാണുക ഈ സാഹചര്യത്തിൽ ഇവിടെ എന്ത് സംഭവിക്കും ഞാൻ നിങ്ങൾക്ക് തുല്യമായ സർക്യൂട്ട് നൽകിയിട്ടില്ല അതിനാൽ സ്വിച്ച് വളരെക്കാലമായി അടച്ചിരിക്കുന്നു അതിനാൽ ഇൻഡക്ടറിലുടനീളമുള്ള വോൾട്ടേജ് t 0 ന് 0 ആയിരിക്കണം കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ ഇൻഡക്ടറിലെ പ്രാരംഭ കറന്റ് t 0 ന് 2 ആമ്പിയർ ആണ് അതായത് i L 0 തുല്യമാണ് അതിനർത്ഥം ഇത് യഥാർത്ഥത്തിൽ ഇത് അടച്ചിരുന്നു അതിനാൽ ഇൻഡക്റ്റർ യഥാർത്ഥത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും ഈ 2 ആമ്പിയർ കറന്റ് ഈ ഇൻഡക്ടറിലൂടെ ഒഴുകും അതിനാൽ i L 0 തുടക്കത്തിൽ ഇത് 2 ആമ്പിയർ ആയിരിക്കും കാരണം ഇത് ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കുന്നു കാരണം സ്വിച്ച് തുറന്നതിനുശേഷം വളരെക്കാലം അടച്ചിരുന്നു അതിനാൽ ഷോർട്ട് സർക്യൂട്ട് ആയതിനാൽ ഇത് ഫലപ്രദമാകില്ല ഇത് ഈ ഷോർട്ട് സർക്യൂട്ട് പാതയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് പ്രാരംഭ കറന്റ് I0 i L0 2 ആമ്പിയർ ആണ് അതിനാൽ ഇൻഡക്റ്ററിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വൈദ്യുത പ്രവാഹത്തിൽ ഒരു തൽക്ഷണ മാറ്റം ഒരു ഇൻഡക്ടറിൽ സംഭവിക്കാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ സ്വിച്ച് തുറന്നിരിക്കുന്നതിനാൽ നമ്മൾ Req കണക്കാക്കുന്നു ഇപ്പോൾ ഈ സ്വിച്ച് തുറക്കുമ്പോൾ ഇത് ഇല്ലാതായിരിക്കുന്നു ഇത് സർക്യൂട്ടിൽ ഇല്ല പക്ഷേ പ്രാരംഭ കറന്റ് ഇൻഡക്റ്റർ I0 2 ആമ്പിയർ നമുക്കറിയാം അതിനാൽ ഈ 1 Ω 4 ഇത് തുറന്നാൽ എന്ത് സംഭവിക്കും അവ സമാന്തരമായി വിളിക്കുന്നവയിലാണ് അതായത് അവയുടെ തുല്യമായ പ്രതിരോധം 1 41 4 0 8 ആയിരിക്കും അതോടൊപ്പം ഈ 2 Ω പ്രതിരോധം ശ്രേണിയിലായിരിക്കും അതിനാൽ 0 2 0 8 തുല്യമായ പ്രതിരോധം 1 ആണ് അത്തരം സാഹചര്യത്തിൽ സർക്യൂട്ടിന്റെ സമയ സ്ഥിരത τ L R ആയിരിക്കും അതിനാൽ അത് L 2 ഹെൻറിയും R ഉം ആയിരിക്കും അതിനാൽ ഇത് 0 2 സെക്കൻറ് ആയിരിക്കും ഇപ്പോൾ മറ്റൊരു കാര്യം വൈദ്യുതധാരയുടെ ദിശയെ എന്താണ് വിളിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ 4 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയെ i ആയി കണക്കാക്കുന്നു അതിനാൽ ഇതിന് തുല്യമായത് എടുക്കുമ്പോൾ അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക അതിനാൽ τ R eq 1 Ω τ 0 2 സെക്കൻഡ് പറഞ്ഞു അതിനാൽ ഇൻഡക്റ്റർ കറന്റിനുള്ള പദപ്രയോഗം i L t i L 0 e പവറിലേക്ക് t τ ഇത് നമുക്കറിയാം അതിനാൽ നമ്മൾ കണ്ട I0 i L 0 2 ആമ്പിയർ τ L R അതിനാൽ ഇത് 0 2 സെക്കൻഡ് t 0 2 ആയിരിക്കും അതിനാൽ ഇത് e 5 t t 0 നായുള്ള ആമ്പിയർ ഇപ്പോൾ കറന്റ് i മുതൽ 4 Ω റെസിസ്റ്റർ വരെ എളുപ്പത്തിൽ ലഭിക്കും കറന്റ് ഡിവിഷൻ i L t i t i L t 11 4 അതിനാൽ ഇവിടെ വന്നാൽ ഇവിടെ വരിക അതിനാൽ നമ്മൾ ഇതിനെ 1 Ω 1 Ω 4 അവ സമാന്തരമാണ് എന്നാൽ ഈ കറന്റ് i ഈ 4 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്നു അതിനാൽ വന്നാൽ ഇതുപോലെയാണെങ്കിൽ കറന്റ് ഡിവിഷനിൽ നിന്ന് ഇതിനെ വിളിക്കുന്നു അതിനാൽ ഈ സർക്യൂട്ട് സർക്യൂട്ടിന്റെ ഈ ഭാഗം ഇല്ല സർക്യൂട്ടിന്റെ ഈ ഭാഗം ഇല്ല ഇതാണ് iL കറന്റ് എന്ന് വിളിക്കുന്നത് അതിനാൽ കറന്റ് ഒരു ഡിവിഷനായി പോയാൽ ഇത് I ആയിരിക്കും t കണക്കിലെടുക്കുമ്പോൾ i t അത് പ്രശ്നമല്ല കറന്റ് ഇത് 11 4 i L t ആണ് അതിനാൽ ഇത് ഉപയോഗിച്ചാണ് എടുത്തത് നമ്മൾ എടുത്ത വഴിക്ക് ആ ദിശയെ എന്ത് വിളിക്കുന്നു എന്ന് ഇവിടെ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിനാൽ ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ 2 കാര്യങ്ങൾ 2 എന്ത് വിളിക്കും ഇതുപോലുള്ള സർക്യൂട്ട് വരച്ചാൽ 0 2 ഹെൻറി 0 2 ഹെൻറിയും ഇതിന് തുല്യമായ പ്രതിരോധവും 1 ആയിരുന്നു ഇത് i L ആണ് ഇത് I L ആണ് അതായത് വൈദ്യുത പ്രവാഹം I L ഇതുപോലെയാണ് ഇത് സമാന്തര തുല്യത 1 ആണ് ഞാൻ വരച്ചിട്ടില്ലാത്ത സർക്യൂട്ട് പക്ഷേ ഇത് കാണിക്കുന്നു ഇത് 0 2 Ω ഹെൻറിയും iL ഉം നമ്മൾ ഇതുപോലെയാണ് എടുത്തത് അതിനാൽ ഇത് നമ്മൾ L L കണ്ടെത്തി പക്ഷേ കറന്റ് ഡിവിഷൻ ഉള്ളതിനാൽ അതിനാൽ ഈ വൈദ്യുതധാരയുടെ ദിശ i 4 Ω പ്രതിരോധത്തിലൂടെയാണ് വിളിക്കുന്നത് അതിനാൽ ഇതിനനുസരിച്ച് ഇതിനെ വിളിക്കുന്നത് അടയാളം അതായിരിക്കും അതിനാൽ അതുകൊണ്ടാണ് ഈ i t i L 11 4 അതായത് 15 i L t അതിനാൽ അത് i t 25 e ആണ് ഈ 4 1 വഴി പ്രവഹിക്കുന്ന കറന്റ് ഡിവിഷൻ സമാന്തരമാണ് അതിനാൽ ഇത് 4 Ω പ്രതിരോധത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയായിരിക്കും 11 4 അതായത് 15 എന്ന് വിളിക്കുന്ന കോൾ ആയിരിക്കും അതിനാൽ 15 i L t ഞാൻ പറഞ്ഞു കാരണം ഞാൻ അതിനെ വിളിക്കുന്നതിനാലാണ് അതിനാൽ ആ സാഹചര്യത്തിൽ i t അടിസ്ഥാനപരമായി 25 e ഊർജ്ജത്തിലേക്ക് 5 t കാരണം i L t 2 e to പവർ 5 t 0 4 e പവർ 5 t ആമ്പിയർ t 0 അതിനാൽ ഇപ്പോൾ V 4 i കാരണം 4 Ω പ്രതിരോധം ഉണ്ട് അതിനാൽ 4 Ω പ്രതിരോധത്തിലുടനീളം വോൾട്ടേജ് V 4 i ആണ് അതിനാൽ 4 0 4 e പവറിലേക്ക് 5 t അതിനാൽ V 1 6 t 0 ന് 5 t വോൾട്ട് ഇപ്പോൾ അടുത്തത് 1 Ω റെസിസ്റ്ററിൽ വിസർജ്ജനം p t v ചതുരം R ആണ് അതിനാൽ R 1 ആണ് അതിനാൽ അത് പവറിന് 2 56 1 e ആണ് v സ്ക്വയർ ഇതിനെ b സ്ക്വയർ എന്ന് വിളിക്കുന്നു അതിനാൽ 1 6 ചതുരശ്ര 2 56 അത് ചതുരമാണ് അതിനാൽ പവർ വരെ 10 ടി അതിനാൽ 2 56 ഇ പവറിന് 10 ടി വാട്ട് അത് t 0 ന് അതിനാൽ 1 Ω റെസിസ്റ്ററിൽ വ്യാപിക്കുന്ന മൊത്തം w t 0 മുതൽ അനന്തത വരെ 2 56 e 10 t dt 256 ജൂൾ ലഭിക്കും അതിനാൽ 0 5 Ω സോറി 0 5 ഹെൻറി ഇൻഡക്ടറിൽ സംഭരിച്ചിരിക്കുന്ന പ്രാരംഭ ഊർജ്ജം പകുതി L I0 L 0 സ്ക്വാര് അതിനാൽ 12 എൽ 0 2 ഹെൻറി എൽ 0 പ്രാരംഭ മൂല്യം 2 ആമ്പിയർ ആണ് അതിനാൽ 2 സ്ക്വാര് 0 4 ജൂൾ ആണ് അതിനാൽ 1 Ω റെസിസ്റ്ററിൽ അലിഞ്ഞുചേരുന്ന ഊർജ്ജത്തിന്റെ ശതമാനം 0 256 ആണ് അതായത് റെസിസ്റ്ററിൽ 0 256 ഊർജ്ജം വ്യാപിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു 0 4 ജൂൾ ആയിരുന്നു അതിനാൽ 0 4 100 അതായത് 64 ശതമാനം അതിനാൽ സർക്യൂട്ടിനെ പിടിച്ചുനിർത്താൻ ഒന്നുമില്ലാതെ നോക്കുന്നതിന് ഇത് ഒരു സാധാരണ ഉദാഹരണമാണ് തുടക്കത്തിൽ സ്വിച്ച് അടച്ചതിനാൽ പ്രാരംഭ അവസ്ഥ എന്താണെന്ന് കണ്ടെത്തുക തുടർന്ന് സ്വിച്ച് തുറന്ന് അതിനനുസരിച്ച് പരിഹരിക്കുക ചിഹ്നം അല്ലെങ്കിൽ ചിഹ്നം നോക്കിയാൽ ദയവായി നോക്കുക അതിനനുസരിച്ച് വൈദ്യുതധാരയുടെ ദിശയെ വിളിക്കുന്ന ചിഹ്നം എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ ചിഹ്നം അല്ലെങ്കിൽ ചിഹ്നം നഷ്ടപ്പെടുകയാണെങ്കിൽ സാങ്കേതിക സംഖ്യാ മൂല്യം സംഖ്യാ മൂല്യം സമാനമായി തുടരാം പക്ഷേ ചിഹ്നം പ്രശ്നം സൃഷ്ടിക്കും അതിനാൽ കുറച്ച് ശ്രദ്ധിക്കണം അതിനാൽ ഏത് കോൾ ഉപയോഗിച്ച് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ത് വോൾട്ടേജ് പിന്നെ റെസിസ്റ്റർ 1 ൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം സംഭരിച്ച മൊത്തം ഊർജ്ജത്തിന്റെ ശതമാനം എന്നിവ ഈ പ്രശ്നത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു